എല്ലാവർക്കും സെൽ കൾച്ചർ ടെക്നോളജിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ നാലാമത്തെ ക്ലാസ്സിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ കൾച്ചർ ഫെസിലിറ്റിയിലെ ഡിസൈനുകളെയും ലേയൌട്ടുകളെയും പറ്റി പറഞ്ഞിരുന്നു അതുകൂടാതെ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുക ആദ്യമേ തന്നെ ലേയൌട്ട് മുൻപിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള കൂട്ടിച്ചേർക്കലുകൾ നടത്താം നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ നാലാമത്തെ ക്ലാസ്സിലാണ് സെൽ കൾച്ചർ ഫെസിലിറ്റിയുടെ ഡിസൈനും ലേയൌട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ പ്രവർത്തന സ്ഥലം ഏതാണ്ട് ഇതുപോലെ ഇതാണ് ഇതിൻറെ പ്രവേശനകവാടം നിങ്ങൾക്കിത് ഒരു കോർണറിൽ ആക്കാം അതായത് നിങ്ങൾക്ക് ഇത് ഒരു കോർണറിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ ഈ വശത്തോ അതോ മറുവശത്തോ ആക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല ഗുണങ്ങളുമുണ്ട് അതായത് വായു പ്രവാഹം ഒരു സ്ഥലത്ത് മാത്രമായി ഒതുങ്ങുമായിരുന്നു എന്നാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അത്തരം ഒരു ചാൻസ് ഉണ്ടാവാൻ വഴിയില്ല കാരണം നിങ്ങൾക്ക് ഒരു മുറിയിൽ ലഭിക്കും ആ മുറിയിൽ ഈ സൌകര്യങ്ങളെല്ലാം ഒരുക്കലാണ് നിങ്ങളുടെ ജോലി ഒന്നോ ഒന്നിലധികമോ മുറികൾ ലഭിക്കാം അതിലാണ് നിങ്ങൾ ഇതെല്ലാം ഒരുക്കേണ്ടത് അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇതിന് നാല് മൂലകൾ അഥവാ കോർണറുകൾ ഉണ്ട് ABCD ഇത് ഒന്നെങ്കിൽ കോർണർ I 1 അല്ലെങ്കിൽ I 2 വിൽ ആകാം ഇൻകുബേറ്ററുകൾ സ്ഥാപിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കൌണ്ടർ ടോപ്പ് ഉണ്ടാകും അതുവഴി നിങ്ങൾക്ക് മതിയായ ഉപരിതല വിസ്തീർണ്ണം ഉണ്ടാകും അതിനോട് ചേർന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കണം ഗ്യാസ് സിലിണ്ടറുകൾക്കായി നിങ്ങൾക്ക് സ്ഥാനമുണ്ട് നിങ്ങൾ ഇൻകുബേറ്റർ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇവിടെയുള്ളതുപോലെ എനിക്ക് കുറച്ചുകൂടി വർക്കിംഗ് ബെഞ്ച് ഉണ്ടാകും അതിനാൽ വാതിൽ അതിനനുസരിച്ച് ഒന്നുകിൽ ഈ ഇൻകുബേറ്ററിന്റെ ഈ ദിശയിലോ അല്ലെങ്കിൽ ഈ ദിശയിലോ തുറക്കും നിങ്ങൾ ഈ സൈഡ് ടേബിളുകളുടെ വിസ്തീർണ്ണം എത്രത്തോളം നിർമ്മിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നിങ്ങൾ ഇത് ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൌണ്ടർ ടോപ്പുകളുടെ ഉയരം നിങ്ങളുടെ ചുറ്റുമുള്ള ശരാശരി ഇന്ത്യൻ ഉയരവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക ഏകദേശം 80 സെന്റീമീറ്ററോളം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം എത്രയായിരിക്കണം എന്നാണ് കാരണം ചിലപ്പോൾ ഇത് വളരെ ഉയരത്തിലാക്കുകയും കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ഇൻകുബേറ്ററിനുള്ള സ്ഥലങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വാതിലിനപ്പുറത്ത് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അധിക സിലിണ്ടറുകൾക്കുള്ള സ്ഥലം ഉണ്ടായിരിക്കും അത് താഴേക്ക് വീഴാതിരിക്കാൻ ശരിയായി കെട്ടി സൂക്ഷിക്കണം എന്ന് നിങ്ങൾക്കറിയാം അകത്തും പുറത്തും സിലിണ്ടറുകൾ വഹിക്കാൻ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ ട്രോളിയും ആവശ്യമാണ് ഈ രീതി വേണം പിന്തുടരാൻ നിങ്ങൾ സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ സിലിണ്ടറിനെ ഒരു ട്രാക്കിലൂടെ കൊണ്ടുപോകണം ലാബിന്റെ മധ്യഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു നൈട്രജൻ ഡിവെയർ ഉണ്ടാകും നിങ്ങൾക്ക് 2 നൈട്രജൻ ഡൈവറുകൾ ഉണ്ടായിരിക്കണം ഒന്ന് നിങ്ങൾക്കറിയാം സെൽ ലൈനുകൾ സംഭരിക്കാൻ മറ്റൊന്ന് ദ്രാവക നൈട്രജൻ കൊണ്ടുവരാൻ കാരണം ഈ പാരന്റ് സ്റ്റഫ് എല്ലാ സമയത്തും കൊണ്ട് നടക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു ഇടം ഉണ്ടായിരിക്കണം കാരണം എല്ലാ ദിവസവും നിങ്ങൾ നൈട്രജൻ നിറയ്ക്കണം അതിനാൽ നൈട്രജൻ സംഭരണം എവിടെ സ്ഥാപിക്കണമെന്ന് നിങ്ങൾ കണ്ടെത്തണം അടുത്ത പ്രധാന കാര്യം നിങ്ങൾക്ക് ഷവറിനൊപ്പം ഒരു സിങ്കും വേണമെന്നതാണ് അതിനാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സിങ്ക് വേണം പ്രധാന ഫ്രെയിമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സിങ്കും ഷവറും വേണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 സെറ്റ് വാതിലുകളുള്ള എൻട്രി പോർട്ട് ഉണ്ട് 2 സെറ്റ് വാതിലുകളുടെ കാരണം ഞാൻ നിങ്ങളോട് പറയാം ഇത് വാതിൽ ഒന്ന് ഇത് വാതിൽ രണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ വരുന്നു നിങ്ങൾക്കിവിടെ ഒരു ഷൂ റാക്ക് വേണം അവിടെ നിങ്ങൾ ഷൂസ് വെക്കുന്നു നിങ്ങൾ ലാബ് കോട്ട് അഥവാ ഗൌൺ ധരിക്കണം അതിനാൽ ലാബ് കോട്ടിനായി ഒരു ഹാങ്ങറും ഉണ്ടായിരിക്കണം അതുപോലെ മാസ്കിനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ലിംഗഭേദമില്ലാതെ മുടി കൊഴിയുന്നവർ തൊപ്പി ഇടണം അതിനാൽ നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ഒരു ക്യാപ് ഉണ്ടായിരിക്കുക നല്ലതാണ് ഒരു തല തൊപ്പി ഇടുക തുടർന്ന് കയ്യുറകളും ധരിക്കുക നിങ്ങൾക്ക് ഒരു ട്രാഷ് ഉണ്ടായിരിക്കണം കാരണം മിക്കപ്പോഴും ഇവ ഡിസ്പോസിബിൾ കയ്യുറകൾ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു ട്രാഷ് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ദിവസവും വൃത്തിയാക്കണം അതേസമയം നിങ്ങൾ ഇവിടെ പ്രവേശിക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ ഒരുതരം വസ്ത്രം ധരിച്ച് പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുകയാണ് അവിടെയൊരു വിൻഡ് കർട്ടൻ വേണം സിസ്റ്റത്തെ മലിനമാക്കാതിരിക്കാനും അനാവശ്യമായ മെറ്റീരിയലുകളൊന്നും അതിലൂടെ കടന്നുപോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും ഈ കാറ്റ് കർട്ടനുകൾ വളരെ ഫലപ്രദമായ ഉപകരണമാണ് ഇപ്പോൾ ചില ആളുകൾ വളരെ രസകരമായ ഒരു കാര്യം ചെയ്യുന്നു അവർ ലാബിനെ മെയിൻഫ്രെയിം ഉപയോഗിച്ച് 2 ഭാഗങ്ങളായി 2 ലെവലിൽ വിഭജിക്കുന്നു അതിനാൽ ഇതാണ് നിങ്ങള്ക്ക് വേണ്ട ലെവൽ അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു ഗ്ലാസോ മറ്റോ ആക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ സംഭരണത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഈ ചുമരുകൾ പോലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ടേബിളുകളിൽ നിങ്ങൾക്ക് ഒരു മൈക്രോസ്കോപ്പ് സൂക്ഷിക്കാം നിങ്ങൾ മുഴുവൻ സൌകര്യങ്ങളും 2 ഭാഗങ്ങളായി വിഭജിക്കുന്നുവെന്ന് കരുതുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാണ് പുറത്തെ കൾച്ചർ റൂം നമ്മുടെ കൾച്ചർ മുറിയിൽ അത്തരം അതിർത്തി നിർണ്ണയിക്കുന്നത് വളരെ അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതിനകം ഷവറിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നു ഇതാണവിടത്തെ ഡ്രസ്സിംഗ് ഏരിയ അടുത്തതായി നിങ്ങൾ ലാബിനുള്ളിൽ പ്രവേശിക്കുന്നു ഇവിടെ ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തു ആദ്യം തന്നെ കയ്യുറകൾ ധരിക്കരുത് ലാബ് കോട്ടിൽ കയ്യുറകൾ സൂക്ഷിച്ചു സിങ്കിൽ വെച്ച് കൈ കഴുകി ഡിസ് ഇൻഫെക്റ്റാണ്ട് ഉപയോഗിച്ചതിന് ശേഷം മാത്രം കൈയുറകൾ ഉപയോഗിക്കുക അതിനാൽ ഇവിടെ നിന്ന് കയ്യുറകൾ എടുത്ത് അവിടെ വെച്ച് ധരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാം സജ്ജമാണ് നിങ്ങൾ അകത്തേക്ക് കടക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ കൂടുതൽ വ്യക്തിഗത ശുചിത്വം ഉറപ്പുവരുത്തുക ഇത് നിങ്ങൾ പാലിക്കേണ്ട ഒന്നാണ് നിങ്ങള്ക്ക് ചുമയോ മറ്റ് അസുഖകളോ അണുബാധയോ ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറാതെയിരിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ജോലി കൂടി നിങ്ങൾ നശിപ്പിച്ചേക്കാം കൂടാതെ വ്യക്തിപരമായ ശുചിത്വം വളരെ പ്രധാനമാണ് അത് നിങ്ങൾ ഉറപ്പു വരുത്തണം കാരണം ഈ സിസ്റ്റത്തിൽ മലിനീകരണത്തിൻറെ പ്രധാന ഉറവിടം തൊഴിലാളികളാണ് അതായതു നമ്മൾ തന്നെയാണ് അതിനാൽ ഇവിടെയാണ് നിങ്ങൾക്ക് അണുനാശിനി ഉള്ളത് ഉദാഹരണത്തിന് നിങ്ങളുടെ ലാബിന് മൃഗങ്ങളെ വിഭജിക്കേണ്ടയിടത്ത് ഒരു പ്രൈമറി കൾച്ചർ ആവശ്യമാണ് മൃഗങ്ങളെ വിഭജിക്കുമ്പോൾ ഗണ്യമായ അളവിൽ അനസ്തേഷ്യ ശസ്ത്രക്രിയ എന്നിവ ഉണ്ടാകും അതിനാൽ അത് മലിനീകരണത്തിന്റെ ഉറവിടമാണ് അതിനാൽ നിങ്ങളുടെ മലിനീകരണ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശുചിത്വം മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്തുന്നതിനോ ഉതകുന്ന വിധത്തിൽ സൌകര്യങ്ങൾ വ്യാപിപ്പിക്കണം ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ ലാബ് ടിഷ്യൂകൾ മസ്തിഷ്ക കോശങ്ങൾ അല്ലെങ്കിൽ കാർഡിയാക് പേശി എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലിൻറെ പേശി അല്ലെങ്കിൽ കരൾ ടിഷ്യു അല്ലെങ്കിൽ എലിയിൽ നിന്നോ എലിയുടെയോ മറ്റേതെങ്കിലും ടിഷ്യുവിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുക ഈ എലികൾക്കെല്ലാം പല കിലോഗ്രാം ആണുള്ളത് അവ അനിമൽ ഹൌസിൽ നിന്ന് വരുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു അനിമൽ ഹൌസ് ഉണ്ടായിരിക്കണം ഇതിനായി നൈതിക അനുമതിയും വേണ്ടി വരും അതിനാൽ നൈതിക ക്ലിയറൻസ് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു സമിതി ഉണ്ടായിരിക്കണം അതിൽ ഒരു മൃഗ ഡോക്ടറും വേണം മൃഗത്തെ ബലിയർപ്പിക്കുന്നതിനുള്ള നൈതിക പരിശീലനം എന്താണെന്നും അടിസ്ഥാന നിയമങ്ങളും മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും എന്താണെന്നും നിങ്ങളോട് പറയാൻ അവർ സെർട്ടിഫൈഡ് ആയിരിക്കണം പ്രാദേശിക അധികാരികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിയമിച്ച നിർദ്ദിഷ്ട സർക്കാർ വിശിഷ്ടാതിഥികൾ അല്ലെങ്കിൽ സർക്കാർ വ്യക്തികൾ ഈ അംഗീകാരത്തെ കൂടുതൽ സ്റ്റാമ്പ് ചെയ്യുന്നു അതിനാൽ മൃഗങ്ങളുടെ നൈതികതയെക്കുറിച്ച് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് അതിനാൽ ആ നൈതിക അനുമതി വളരെ അത്യാവശ്യമാണ് അതിനാൽ അവ ലഭിച്ച ശേഷം മൃഗത്തിനെ ലാബിലേക്ക് കൊണ്ട് വരാം അതിനാൽ ഉദാഹരണത്തിന് മൃഗങ്ങൾ ലാബ് കോട്ടിലൂടെയോ മറ്റോ പോകുന്നില്ല അവയെ നേരിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങള്ക്ക് ഡിസ്ക്ട് ചെയ്യേണ്ട മൃഗത്തെ ലഭിക്കുകയാണ് അതറിഞ്ഞു കൊണ്ട് നിങ്ങള്ക്ക് ലാബിനെ രണ്ടായി ഭാഗിക്കാം നിങ്ങൾക്ക് ഇതിലൂടെ പ്രവേശിക്കുകയും പോവുകയും ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഈ കോണിൽ ഞാൻ ഇപ്പോൾ ഷേഡിംഗ് ചെയ്യുന്ന ഈ കോണിൽ ഒരു ലാമിനാർ ഫ്ലോ ഹുഡ് സ്ഥാപിക്കാം അപ്പോൾ ലാമിനാർ ഫ്ലോ ഹുഡ് എന്താണ് ലാമിനാർ ഫ്ലോ ഹുഡ് പ്രധാനമായും ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ഘടനയാണ് ഇതുപോലുള്ള ഒന്ന് വരച്ചാൽ കൂടുതൽ മനസിലാകും ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു പെട്ടി വരയ്ക്കുന്നു അതിന് സ്വന്തമായ അളവുകളുണ്ട് ഇതാണ് ബോക്സ് അതിൻറെ മിക്ക വശങ്ങളും ഗ്ലാസ് അല്ലെങ്കിൽ മിക്കവാറും സുതാര്യമായ സിന്തറ്റിക് പ്ലാസ്റ്റികാണ് അതിനാൽ 2 വഴികളുണ്ട് ഒന്നുകിൽ അതിന്റെ പുറകിൽ ഒരു വിപുലീകരണം കാണും അല്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെൻട്രൽ ആയിരിക്കും അതിനാൽ അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു തരം എൻക്ലോസ് ഘടന കാണും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വായു പ്രവാഹത്തിന്റെ ഒരു ഫോഴ്സ് ഉണ്ട് അത് മലിനീകരണം ഉണ്ടാവാതെ നോക്കും അവിടെ എപ്പോഴും വായുവുണ്ട് അതിനായി ഫാനുകളുമുണ്ട് ഫാനുകൾ മുകളിലോ സൈഡിലോ ആകാം അതനുസരിച്ചു വെർട്ടികലോ ഹൊറിസോണ്ടലോ ആകാം ലാമിനാർ ഫ്ലോ ഹുഡ് അതിനാൽ വെർട്ടിക്കലിന് മുകളിൽ ഒരു അധിക അറ്റാച്ചുമെന്റ് ഉണ്ട് ഹൊറിസോണ്ടലിനു പിന്നിൽ അല്ലെങ്കിൽ ബാക്കിലാണുള്ളത് ഹൊറിസോണ്ടലിൽ എയർ ഇതുപോലെ പിന്നിൽ നിന്ന് വരാം അല്ലെങ്കിൽ അത് ഇതുപോലെ മുകളിൽ നിന്നാണ് വരിക എന്റെ മുന്പിലുള്ളത് ഒരു ലാമിനാർ ഫ്ലോ ഹുഡ് ആണെന്ന് വിചാരിക്കുക എയർ മുകളിൽ നിന്ന് ഇത് പോലെ വരാം അതിനാൽ നിങ്ങൾ ഏതുതരം ജോലിയും ചെയ്താൽ ഇതാണ് സംഭവിക്കുക ഞാൻ കണ്ട അനുഭവത്തിലൂടെ ഒരു വെർട്ടികലായ ലാമിനാർ ഫ്ലോ ഹുഡ് വാതിലിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ നിങ്ങൾക്ക് ചില സാധനങ്ങൾ പൊളിച്ച് അകത്തേക്ക് കൊണ്ടുവരേണ്ടതായി വരും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാമിനാർ ഫ്ലോ ഹൂഡിന്റെ വലുപ്പം ഉറപ്പാക്കുക ഇവിടെ അത് വെർട്ടികലോ ഹൊറിസോണ്ടലോ ആയിക്കോട്ടെ എന്നാൽ സ്ഥലത് കൊള്ളുന്നതായിരിക്കണം അതിനാൽ ഇവയിൽ ഏറ്റവും ചെറുത് നിങ്ങളുടെ പ്രാദേശിക ഫാബ്രിക്കേറ്ററിൽ നിന്നുണ്ടാകാവുന്നതാണ് ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം 2 മുതൽ 2 5 അടി ഉണ്ടാകും ഇത് പോലെ ഒരാൾക്ക് മറ്റൊരാളെ ശല്യപെടുത്താതെ അതിൽ പ്രവർത്തിക്കാം എന്നാൽ രണ്ടാമതൊരാൾക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സമർത്ഥനാണെങ്കിൽ അവയിൽ 2 ആളുകൾക്ക് പരസ്പരം ശല്യപ്പെടുത്താതെ തികച്ചും വ്യക്തിപരമായി പ്രവർത്തിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇതൊരു ഹൊറിസോണ്ടൽ ഹുഡ് ആണെങ്കിൽ ഇതിൽ രണ്ടു പേർക്ക് പ്രവർത്തിക്കാം P1 P2 എന്നാൽ അവർ ഒരേ ബെഞ്ചാണുപയോഗിക്കുന്നത് അവർക്കിടയിൽ ഒരു തടസ്സവുമില്ല അതിനാൽ എങ്ങനെ ഏത് തരത്തിലുള്ള ലാമിനാർ ഫ്ലോ ഹുഡ് വേണമെന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ വിടുന്നു ചുരുക്കത്തിൽ ലാമിനാർ ഫ്ലോ ഹൂഡിനെ 2 വിഭാഗങ്ങളായി തിരിക്കാം സന്ദേശം വളരെ വ്യക്തമാണ് ഒന്ന് വെർട്ടിക്കൽ അവയിൽ വായു മുകളിൽ നിന്ന് താഴേക്ക് നീങ്ങുന്നു വായു പ്രവാഹം ഒരു എയർ കർട്ടൻ പോലെയാണ് അതിനാൽ വായു ഇതുപോലെ ഒഴുകുന്നു ഇതുപോലെ പുറത്തേക്ക് രണ്ടാമത്തെ കാര്യം ഹൊറിസോണ്ടലാണ് അവിടെ വായു പുറകിൽ നിന്ന് മുൻപിലേക്ക് ഒഴുകുന്നു നിങ്ങളിലേക്ക് ഒഴുകുന്നു അതിനാൽ ഒരു സെമി ഹൈബ്രിഡ് പോലെയുള്ള ചില പരിഷ്കാരങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് എന്നാൽ സങ്കീർണ്ണതയിലേക്ക് കടക്കണ്ട നിങ്ങൾക്ക് 2 തരം ലാമിനാർ ഫ്ലോ ഹുഡ് ഉണ്ട് ഒരു വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡ് ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഹുഡ് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലാമിനാർ ഫ്ലോ ഹൂഡുകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും 23 പാരാമീറ്ററുകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യുക വലുപ്പം ഒരു നിസ്സാര പോയിന്റായി തോന്നാം പക്ഷേ ഇത് നിങ്ങളുടെ വാതിലിന്റെ ഉയരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് എത്രത്തോളം നിസ്സാരമെന്ന് തോന്നിയേക്കാം റൂമിനുള്ളിൽ ഈ ലാമിനാർ ഫ്ലോ എത്തിക്കണം അതിനാൽ അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ഉത്പാദകർ തന്നെ അത് ഉറപ്പാക്കും തീർച്ചയായും ഉത്പാദകർ അത് നോക്കിക്കോളും എന്നാൽ അതിനും അത് പുറത്തെടുക്കണം ഒരുപാടു പ്രേശ്നങ്ങളുണ്ട് മൂന്നാമതായി എത്ര ഉപഭോക്താക്കളുണ്ട് അവർ എത്ര തവണ ഇതുപയോഗിക്കുന്നുണ്ട് ഒരു ലാമിനാർ ഫ്ലോ ഹൂഡിൽ എത്ര പ്രവൃത്തി സമയം അതിനാൽ ലാമിനാർ ഫ്ലോ ഹൂഡിൽ 2 3 കാര്യങ്ങൾ ഉണ്ട് അവിടെ നിങ്ങള്ക്ക് മുൻവശത്തായി ഒരു തരം വിൻഡോകൾ പോലെ കാണാം നിങ്ങൾക്ക് വിൻഡോ ഇതുപോലെയോ അതുപോലെയോ ഉയർത്താൻ കഴിയും അവർക്ക് അത്തരം നിരവധി ഓപ്ഷനുകൾ ഉണ്ട് അത് ഒരു ഗ്ലാസ് ആണ് അതിനാൽ ഇതിന് ഒരു അൾട്രാവയലറ്റ് ഘടകം ഉണ്ടാകും അവയ്ക്ക് ട്യൂബ് ലൈറ്റ് ഉണ്ടാകും ഇവയാണ് പ്രധാനഭാഗങ്ങൾ കൂടാതെ ബ്ലോവറുകൾക്കും ഫാനുകൾക്കും ഒരു സ്വിച്ച് ഉണ്ട് അതിനാൽ വളരെ ലളിതമായ പ്രാദേശികമായി നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്തരം മോഡലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അകത്ത് നിങ്ങൾ ഈ ഭാഗം തുറന്നാൽ ഫിൽട്ടർ മെഷ് കാണാം നിങ്ങൾക്ക് ഫിൽട്ടർ മെഷ് ഉണ്ടാകും അതിന്റെ ജോലി കനംകുറഞ്ഞ മാലിന്യങ്ങളോ പൊടിയോ നീക്കുക എന്നതാണ് അതിനാൽ സാധാരണയായി നിങ്ങൾ ലാമിനാർ ഫ്ലോ ഹൂഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് യുവി UV സ്വിച്ച് ഓൺ ചെയ്ത് അരമണിക്കൂറോളം വെറുതെ ഇടുന്നത് നല്ലതാണ് അതിനേക്കാൾ വർക്കിന് മുൻപും ശേഷവും ആൽക്കഹോൾ ഉപയോഗിച്ച് ഉപരിതലം തുടക്കയ്ക്കണം അതിനാൽ നിങ്ങൾ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് 70 ശതമാനം മുതൽ 100 ശതമാനം വരെ ആൽക്കഹോൾ ഉപയോഗിച്ച് തുടയ്ക്കണം അതിനുശേഷം ഞാൻ ചെയ്യുന്ന രീതി എന്തെന്നാൽ ഞാൻ യുവി UV സ്വിച്ച് ഓൺ ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ഇടുന്നു എന്നാൽ അത് ഞാൻ നിങ്ങള്ക്ക് വിട്ടു തരികയാണ് അതിനുശേഷം ആദ്യം മനസ്സിലാക്കേണ്ടത് UV ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് കേടുവരുത്തുന്നിലെന്ന് ഉറപ്പാക്കാൻ ഗൂഗിൾസ് ഉപയോഗിക്കണം ദയവായി നിങ്ങളുടെ കണ്ണുകൾക്ക് കേടുപാടുകൾ വരുത്തരുത് യുവി UV സ്വിച്ച് ഓഫ് ചെയ്ത് ഫാനുകൾ അല്ലെങ്കിൽ ബ്ലോവറുകൾ വെളിച്ചത്തിന്റെ സ്വിച്ച് എന്നിവ ഓൺ ചെയ്യുക സാധാരണയായി നിങ്ങൾക്ക് ഇവിടെ കസേരയോ ഇരിക്കാനുള്ള ക്രമീകരണമോ നൽകിയിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് ഇരിക്കാനും ജോലി ചെയ്യാനും കഴിയും ഇപ്പോൾ നിങ്ങൾ നിർവഹിക്കുന്ന ജോലിയെ ആശ്രയിച്ച് ലാമിനാർ ഫ്ലോ ഹൂഡിനുള്ളിൽ വ്യത്യസ്ത തരം സ്റ്റഫ് സൂക്ഷിക്കുന്നവരുണ്ട് അതിനാൽ ലാമിനാർ ഫ്ലോ ഹൂഡിനുള്ളിൽ മിനിമം സ്റ്റഫ് ഇടുന്നതാണ് ഉചിതം നിങ്ങളും നിങ്ങളുടെ ടീമുമാണ് തീരുമാനിക്കേണ്ടത് എന്തെല്ലാമാണവിടെ വെയ്ക്കേണ്ടതെന്ന് ഉദാഹരണത്തിന് ഈ ലാമിനാർ ഫ്ലോ ഹുഡ് വിഭജനത്തിനായി വെയ്ക്കണം എന്ന് വിചാരിക്കുക എങ്കിൽ ആ മൂലയിൽ ലാമിനാർ ഫ്ലോ ഹുഡ് വിഭജനത്തിനായി മാറ്റി വെക്കാം ഇപ്പോൾ വിഭജനത്തിനായി ഇത് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില മുൻവ്യവസ്ഥകൾ ഉണ്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്താണ് അതിനാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ ഇവിടെ വെച്ച് ഈ ക്ലാസ് നിർത്തുകയാണ് നമ്മൾ എത്ര ദൂരം എത്തിയിരിക്കുന്നുവോ അവിടെ നിന്ന് പിന്നീട് പുനരാരംഭിക്കാം ആ വിഭജനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിഭജിക്കുന്ന ലാമിനാർ ഫ്ലോ ഹുഡ് സൌകര്യത്തിന് ചുറ്റും നൽകേണ്ടത് എന്തെല്ലാം